മുമ്പത്തെ യൂണിറ്റിൽ ഒരു യോഗ്യതയ്ക്കായി നിർദ്ദേശസാമഗ്രികൾ സൃഷ്ടിക്കുന്നതിനുള്ള ഒരു പ്രക്രിയ കോഴ്സ് രൂപകൽപ്പനയുടെ വികസന ഘട്ടവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കി കോഴ്സ് ഡിസൈൻ ഒരു നിർദ്ദിഷ്ട ഇൻസ്ട്രക്ഷണൽ സിസ്റ്റം ഡിസൈൻ ചട്ടക്കൂടിനുള്ളിലാണ് ചെയ്യേണ്ടത് നിരവധി ഫ്രെയിംവർക്കുകൾ ഉണ്ട് പക്ഷേ ഞങ്ങൾ ADDIE പിന്തുടരുന്നു ADDIE എന്നത് ADDIE മോഡലിന്റെ 5 ഘട്ടങ്ങളായ വിശകലനം രൂപകൽപ്പന വികസനം നടപ്പിലാക്കൽ വിലയിരുത്തൽ എന്നിവയാണ് ഞങ്ങൾ ഇതുവരെ കണ്ടത് കോഴ്സ് ഫലങ്ങൾ സൃഷ്ടിക്കുകയും അവയെ കഴിവുകളിലേക്ക് വിശദീകരിക്കുകയും ചെയ്ത വിശകലന ഘട്ടം രൂപകൽപ്പനഘട്ടത്തിൽ മൂല്യനിർണ്ണയത്തിന്റെ പ്രശ്നത്തെക്കുറിച്ചും കഴിവുകളുമായും കോഴ്സ് ഫലങ്ങളുമായും എങ്ങനെ വിലയിരുത്തൽ ആസൂത്രണം ചെയ്യാമെന്നും ഞങ്ങൾ അഭിസംബോധന ചെയ്തു വികസന ഘട്ടത്തിൽ ഒരു യോഗ്യതയ്ക്കായി പ്രബോധനസാമഗ്രികൾ എങ്ങനെ സൃഷ്ടിക്കാമെന്ന് ഞങ്ങൾ നോക്കുകയും സാമഗ്രികളുടെ സ്ക്രിപ്റ്റ് ഡയലോഗ് ഘട്ടം നിർദ്ദേശിക്കുകയും ചെയ്തു ഇത് പിന്തുടരുകയാണെങ്കിൽ ഒരാൾക്ക് ഇൻസ്ട്രക്ഷണൽ സാമഗ്രികൾ വികസിപ്പിക്കാൻ കഴിയും അതേസമയം പഠനസാമഗ്രികൾ തിരഞ്ഞെടുക്കലിൽ ഒന്ന് മാത്രമാണ് ചിലപ്പോൾ അധ്യാപകൻ ഒരു പാഠപുസ്തകത്തിൽ എളുപ്പത്തിൽ ലഭ്യമല്ലാത്ത ചില കാര്യങ്ങൾ തയ്യാറാക്കുന്നു നടപ്പിലാക്കൽ ഘട്ടം നടപ്പിലാക്കുന്ന ഘട്ടത്തിന്റെ ഉപപ്രക്രിയകൾ തിരിച്ചറിയുന്നതാണ് ഉദ്ദേശിച്ച ഫലം ഓരോ ഘട്ടത്തിലും ചില ഉപ പ്രക്രിയകൾ ഉണ്ടാകും പ്രക്രിയകളും അവയുടെ ശ്രേണിയും അദ്വിതീയമല്ലെങ്കിലും ചില സെറ്റ് ഉപപ്രക്രിയകൾ തിരിച്ചറിയുകയും നാം അവയെ ക്രമീകരിക്കുകയും വേണം അത് ഞങ്ങൾ പ്രയോജനകരവും ഉപയോഗപ്രദവുമായി കണ്ടെത്തിയ ഒരു കൂട്ടം ഉപപ്രക്രിയകൾ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു നടപ്പാക്കൽ ഘട്ടം വികസനഘട്ടത്തെ പിന്തുടരുന്നു എന്നാൽ നിങ്ങൾ ഓരോന്നും നടപ്പാക്കുമ്പോഴെല്ലാം ഒരു കോഴ്സ് ഓഫറിന്റെ ഉദാഹരണമാണ് ഞാൻ 1 സെമസ്റ്ററിൽ ഒരു കോഴ്സ് വാഗ്ദാനം ചെയ്തപ്പോൾ അത് ഒരു കോഴ്സ് വാഗ്ദാനം ചെയ്യുന്നതിന്റെ ഒരു ഉദാഹരണമാണ് എന്നാൽ ഞാൻ ഈ കോഴ്സ് വാഗ്ദാനം ചെയ്യുമ്പോഴെല്ലാം സന്ദർഭം അല്പം വ്യത്യസ്തമാകും ഒന്നാമതായി എന്റെ കോഴ്സിലേക്ക് വരുന്ന എല്ലാ വിദ്യാർത്ഥികളും മുമ്പത്തേതിനേക്കാൾ ഇപ്പോൾ വ്യത്യസ്തമാണ് കൂടാതെ ഞാൻ വാഗ്ദാനം ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാം അല്ലെങ്കിൽ ചില പുതിയ സാമഗ്രികൾ വന്നിരിക്കാം ഞാൻ തന്നെ കോഴ്സിന്റെ ഉള്ളടക്കത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുവാൻ ആഗ്രഹിക്കാം അതിനാൽ ഓരോ സന്ദർഭവും വാഗ്ദാനങ്ങൾ സന്ദർഭങ്ങളെയും വാഗ്ദാനസമയത്തെയും അടിസ്ഥാനമാക്കി അല്പം വ്യത്യസ്തമായിരിക്കും നിങ്ങൾ നടപ്പിലാക്കൽ ഘട്ടം ആസൂത്രണം ചെയ്യുമ്പോൾ അത് ഒരു വാഗ്ദത്തകോഴ്സിന്റെ സവിശേഷതകൾ അവതരിപ്പിക്കും ഞാൻ ഓഗസ്റ്റ് 1 നിന്നും വരുന്ന സെമസ്റ്റർ ഒരു കോഴ്സ് വാഗ്ദാനത്തിന് തയ്യാറെടുക്കുന്നു എങ്കിൽ തീർച്ചയായും ഞാൻ ആ ഓഗസ്റ്റ് കാലാവധി മുതൽ എന്തു ചെയ്യണമെന്നത് വഴി വാഗ്ദാനത്തിന്റെ എല്ലാ വിശേഷതകളും ഞാൻ എനിക്കു വേണ്ടി എഴുതണം എന്നാണ് ചില പ്രത്യേകതകളുണ്ട് പാഠ്യപദ്ധതി പുനപരിശോധിക്കുകയും തികച്ചും വ്യത്യസ്തമായ സാമഗ്രികൾ കൊണ്ടുവരികയും ചെയ്യുന്നതുവരെ നടപ്പാക്കൽ ഘട്ടത്തിലെ ഉള്ളടക്കം ഒരു വാഗ്ദാനത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് അല്പം മാത്രം വ്യത്യാസപ്പെടും അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾ വിശകലനഘട്ടത്തിൽ നിന്ന് വീണ്ടും ആരംഭിച്ച് മറ്റെല്ലാ ഘട്ടങ്ങളിലൂടെയും നന്നായി കടന്നുപോകും നടപ്പാക്കൽ ഘട്ടത്തിന് വ്യത്യസ്ത ഘടകങ്ങളും പ്രക്രിയകളും ഉണ്ട് ഒരു സിലബസ് എഴുതുന്നത് അത് ഇപ്പോൾ വിശദീകരിക്കും ഒരു കോഴ്സ് നടത്തുന്നതിനുള്ള വിഭവങ്ങൾക്കായി ആസൂത്രണം ചെയ്യുക അതിനുള്ള ആസൂത്രണം വിദ്യാർത്ഥികൾ ഒരു വർഷത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുമ്പോൾ എനിക്ക് എങ്ങനെയുള്ള വിദ്യാർത്ഥികളാണുള്ളതെന്ന് ഒരു തോന്നൽ എനിക്ക് ആവശ്യമാണ് എനിക്ക് അവയെ ടൈപ്പ്കാസ്റ്റ് സ്റ്റീരിയോടൈപ്പ് ചെയ്യാൻ കഴിയില്ല ഓരോ ബാച്ചും അല്പം വ്യത്യസ്തമാണ് കൂടാതെ വിദ്യാർത്ഥികളുടെ കഴിവുകളെക്കുറിച്ചും അവരുടെ പ്രചോദനത്തെക്കുറിച്ചും ഇൻസ്ട്രക്ടറുടെ ധാരണയും ഞങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നു ഓരോ അദ്ധ്യാപകനും ഒരു പ്രഭാഷണ ഷെഡ്യൂൾ പ്രഭാഷണ പദ്ധതി തയ്യാറാക്കേണ്ടതുണ്ട് നിരീക്ഷണങ്ങളും നിർദ്ദേശങ്ങളും ഞാൻ ഒരു ക്ലാസ് സെഷൻ നടത്തിയ ശേഷം എന്റെ നിരീക്ഷണങ്ങൾ അത് എങ്ങനെ സംഭവിച്ചു എന്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എന്ത് വിജയങ്ങൾ ഉണ്ടായിരുന്നു 2 അല്ലെങ്കിൽ 3 വാക്യങ്ങളിൽ ഞാൻ രേഖപ്പെടുത്തുന്നു ചില കാരണങ്ങളാൽ ചില സമയങ്ങളിൽ ഞങ്ങൾ നടത്തുന്ന അധിക സെഷനുകളും രേഖപ്പെടുത്തുകയും ചെയ്യും ക്വിസുകളോ ക്ലാസ് ടെസ്റ്റുകളോ അവസാന സെമസ്റ്റർ പരീക്ഷയോ ആകട്ടെ ആ സെമസ്റ്ററിനായി പ്രത്യേകമായി മൂല്യനിർണ്ണയ ഉപകരണം സൃഷ്ടിക്കുക ഇത് ഒരു സ്വയംഭരണ സ്ഥാപനമാണെങ്കിൽ അല്ലെങ്കിൽ അത് ഒരു അഫിലിയേറ്റഡ് കോളേജാണെങ്കിൽ പരീക്ഷയുടെ കൺട്രോളർ SEE നായുള്ള മൂല്യനിർണ്ണയ ഉപകരണത്തിന്റെ രൂപകൽപ്പനയ്ക്ക് ക്രമീകരിക്കും ഓരോ മൂല്യനിർണ്ണയത്തിനും ശേഷം വിദ്യാർത്ഥികൾക്കുള്ള ഫീഡ്ബാക്ക് മൂല്യനിർണ്ണയഉപകരണങ്ങളെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങൾ വിദ്യാർത്ഥികളുടെ പ്രകടനം സെഷനിൽ വിദ്യാർത്ഥികളുടെ പ്രതികരണം വിദ്യാർത്ഥികളെ ട്രാക്കുചെയ്യുന്നു സെമസ്റ്റർ അവസാനിക്കുന്നതുവരെ കാത്തിരിക്കുന്നതിനേക്കാൾ അല്പം വിപുലമായ നടപടി കൈക്കൊള്ളുന്നതിനായി വിദ്യാർത്ഥികളുടെ പ്രകടനത്തിന്റെ ട്രാക്ക് സൂക്ഷിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു നടപ്പിലാക്കൽ ഘട്ടത്തിന്റെ ആദ്യ ഘടകം സിലബസ് ആണ് ഇന്ത്യയിലും മറ്റിടങ്ങളിലും "സിലബസ്" എന്ന വാക്ക് മനസ്സിലാക്കുന്ന രീതികൾ കുറച്ച് വ്യത്യസ്തമാണ് "സിലബസ്" എന്ന വാക്ക് സാധാരണയായി ചിലവിധത്തിൽ സംഘടിപ്പിച്ച വിഷയങ്ങളുടെ ഒരു പട്ടികയായി മനസ്സിലാക്കുന്നു ചിലപ്പോൾ യൂണിറ്റുകളായി അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ചില ഖണ്ഡികകളായി വിഭജിച്ച് വിഷയങ്ങൾ പട്ടികപ്പെടുത്തുന്നു കോഴ്സുമായി ബന്ധപ്പെട്ട ക്രെഡിറ്റുകളുടെ എണ്ണം നിങ്ങൾ സൂചിപ്പിക്കുകയും പാഠപുസ്തകങ്ങളും റഫറൻസുകളും പട്ടികപ്പെടുത്തുകയും ചെയ്യുക ഏതെങ്കിലും സർവകലാശാലകളിൽ നിന്നുള്ള ഏത് സിലബസ് പുസ്തകത്തിലും ഈ മെറ്റീരിയൽ മാത്രമേ ഉണ്ടാകൂ അധ്യാപകർ സിലബസ് ഇതിനകം തന്നെ വിദ്യാർത്ഥികൾക്ക് അറിയാം എന്ന് കരുതുന്നു ചില സാഹചര്യങ്ങളിൽ അധ്യാപകർ കോഴ്സിന്റെ വിവരണത്തെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും അച്ചടിച്ച പേപ്പറിന്റെ ഒരു ഷീറ്റ് അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിൽ ലഭ്യമാക്കുക നൽകും എല്ലാ നല്ല സ്ഥാപനങ്ങളിലും പ്രത്യേകിച്ച് സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കോഴ്സിന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചും താൻ പ്രതീക്ഷിക്കുന്നതിനെക്കുറിച്ചും അധ്യാപകൻ എന്തെങ്കിലും എഴുതുന്ന ഒരു പരിശീലനമുണ്ട് എന്നാൽ നിങ്ങൾ ഈ രേഖകളിലേതെങ്കിലും പരിശോധിച്ചാൽ ആരും പ്രത്യേക ഫോർമാറ്റ് പിന്തുടരുന്നില്ല അന്തർദ്ദേശീയമായി ഓരോ സർവകലാശാലയും സിലബസ് സമർപ്പിക്കുന്നതിനുള്ള ഒരു ഫോർമാറ്റ് നിർദ്ദേശിക്കും മറ്റൊന്നിൽ നിന്ന് അല്പം വ്യത്യസ്തമായ ഫോർമാറ്റ് എല്ലാ ഫാക്കൽറ്റി അംഗങ്ങളും എല്ലാ പ്രോഗ്രാമുകളിൽ നിന്നും സർവ്വകലാശാലയോ കോളേജോ നൽകിയ ഫോർമാറ്റിൽ സിലബസ് സമർപ്പിക്കേണ്ടതാണ് ഈ അർത്ഥത്തിൽ സിലബസ് നിർവചിക്കാൻ ഞങ്ങൾ ഇപ്പോൾ ശ്രമിക്കും സിലബസ് എഴുതുന്നതിനെക്കുറിച്ച് ജോയ്സും മെർലിനും എഴുതിയ ഒരു പുസ്തകം പോലും ഉണ്ട് നന്നായി എഴുതിയ സിലബസ് ഫാക്കൽറ്റികളെയും വിദ്യാർത്ഥികളെയും ഒരുപോലെ നയിക്കുന്നു പ്രത്യേകിച്ചും ഇത് വിദ്യാർത്ഥികൾക്ക് എന്താണ് വേണ്ടത് അവർ എന്താണ് പ്രതീക്ഷിക്കുന്നത് തുടങ്ങിയവ വളരെ വ്യക്തമാക്കുന്നു കൂടാതെ ഫാക്കൽറ്റിക്ക് ഒരു വഴികാട്ടിയായി വർത്തിക്കുന്നു ചില ഫാക്കൽറ്റികളുമായി അവരുടെ പ്രിയപ്പെട്ട വിഷയങ്ങളിൽ കൂടുതൽ സമയവും മറ്റ് കാര്യങ്ങളിൽ കൂറവു സമയവും ചെലവഴിക്കുന്ന പ്രവണതയുണ്ട് ചിലപ്പോൾ ചില വിഷയങ്ങൾ പോലും ഉപേക്ഷിക്കാം സിലബസ് ഫാക്കൽറ്റിയെ നയിക്കണം ഫാക്കൽറ്റി അംഗം തന്നെ സിലബസ് എഴുതുന്നു സിലബസ് എഴുതി വിദ്യാർത്ഥികൾക്ക് അവതരിപ്പിച്ചതിനുശേഷം മാത്രം സെമസ്റ്റർ സമയത്ത് അദ്ദേഹം അത് പിന്തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു കോഴ്സിന്റെ വിശാലമായ ലക്ഷ്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ സിലബസ് തന്നെ വിദ്യാർത്ഥികൾക്ക് നൽകുന്നു നിർദ്ദിഷ്ട കോഴ്സ് ഫലങ്ങൾ സിഒഎസ് കോഴ്സിന്റെ അവസാനം വിദ്യാർത്ഥി പ്രകടിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രബോധന പദ്ധതി വിദ്യാർത്ഥികളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ജോലി പ്രകടനം എങ്ങനെ വിലയിരുത്തപ്പെടും മറ്റ് നിരവധി പ്രശ്നങ്ങൾ ഈ ഫോർമാറ്റിൽ നിങ്ങൾ ആദ്യമായി സിലബസിലേക്ക് എഴുതുമ്പോൾ അത് വളരെ ഗംഭീരവും അനാവശ്യമായി വിശദമായതുമായി തോന്നാം പക്ഷേ ഒരിക്കൽ നിങ്ങൾ അത് ചെയ്തുകഴിഞ്ഞാൽ വർഷാവർഷം നിങ്ങൾ അതിന്റെ ഘടകങ്ങൾ ചെറുതായി മാറ്റാൻ സാധ്യതയുണ്ട് അതിനാൽ ഒരു സെമസ്റ്ററിൽ നിന്ന് മറ്റൊന്നിലേക്ക് സിലബസ് നവീകരിക്കുകയോ പരിഷ്കരിക്കുകയോ ചെയ്യുന്നത് അധ്യാപകന് വലിയ ബാധ്യതയല്ല കോഴ്സിന്റെ തുടക്കത്തിൽ ഒരു രേഖാമൂലമുള്ള സിലബസ് വിതരണം ചെയ്യുന്നതിലൂടെ ക്ലാസ് പ്രതീക്ഷയെക്കുറിച്ചുള്ള വിദ്യാർത്ഥികളുടെ തെറ്റിദ്ധാരണകൾ കുറയ്ക്കാൻ ഇൻസ്ട്രക്ടർക്ക് കഴിയും അധ്യാപകന് അത് വ്യക്തമായിരിക്കാം പക്ഷേ വിദ്യാർത്ഥിക്ക് അത്ര വ്യക്തമായിരിക്കില്ല ഇത് ആശയവിനിമയം നടത്തിയില്ലെങ്കിൽ വിദ്യാർത്ഥി തെറ്റിദ്ധരിക്കുകയും പരിശോധന നടത്താതിരിക്കുകയും ചെയ്താൽ സെമസ്റ്ററിന്റെ അവസാനത്തിൽ അയാൾ വളരെ കനത്ത വില നൽകുന്നു ഈ തെറ്റിദ്ധാരണ ഇല്ലാതാക്കാൻ നന്നായി എഴുതിയ സിലബസ് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കും സിലബസിന് സെമസ്റ്ററിലുടനീളം ഫാക്കൽറ്റികളെ ട്രാക്കിൽ സൂക്ഷിക്കാനും കോഴ്സ് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തടസ്സപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കാനും കഴിയും നിങ്ങൾ ഒന്നുവിട്ട് മറ്റൊന്ന് സ്വീകരിക്കണം നിങ്ങൾക്ക് എത്താൻ ചില ലക്ഷ്യങ്ങളുണ്ട് പ്രഖ്യാപിത കോഴ്സ് ഫലങ്ങൾ നേടാൻ വിദ്യാർത്ഥികളെ സഹായിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം സിലബസിന് ഘടകങ്ങൾ നിരവധി ഇതിന്റെ ലക്ഷ്യമെന്താണെന്നതിനെക്കുറിച്ച് കോഴ്സ് എന്താണെന്ന് പറഞ്ഞ് ഒന്നോ രണ്ടോ വാക്യങ്ങൾ എഴുതുന്നത് എല്ലായ്പ്പോഴും നല്ലതാണ് കോഴ്സ് അവലോകനവും സന്ദർഭവും കോഴ്സിന്റെ ബാക്കി പ്രോഗ്രാമുമായുള്ള ബന്ധം കോഴ്സിന്റെ സ്വഭാവം തൊഴിലിനോടുള്ള പ്രാധാന്യം ഇൻസ്ട്രക്ടർ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്ന സമീപനം എന്നിവ ഉൾക്കൊള്ളുന്നു വിശകലന ഘട്ടത്തിലാണ് ഇത് സൃഷ്ടിച്ചത് വിശകലന ഘട്ടത്തിൽ കോഴ്സ് സന്ദർഭവും എഴുതിയ രീതിയുടെ അവലോകനവും ഇവിടെ കൊണ്ടുവരണം കോഴ്സ് ഫലങ്ങൾ എഴുതുക ഇവയും വിശകലന ഘട്ടത്തിൽ തയ്യാറാക്കിയതാണ് അവ ഇവിടെ എത്തിക്കുക കൂടാതെ കോഴ്സ് കഴിവുകൾ കോഴ്സ് ഫലങ്ങളുടെ വിശദീകരണങ്ങൾ നിങ്ങൾ 6 2 കോഴ്സ് ഫലങ്ങൾ എഴുതുകയാണെങ്കിൽ കഴിവുകളുടെ എണ്ണം 15 പ്ലസ് അല്ലെങ്കിൽ മൈനസ് 5 ആയിരിക്കാം പക്ഷേ ഒരിക്കലും 20 ൽ കൂടരുത് വളരെ അപൂർവമായി ഇത് 20 ൽ എത്തും ഓരോ കഴിവിലും ഞങ്ങൾ ഒരു ഇൻസ്ട്രക്ഷണൽ യൂണിറ്റിനെ ബന്ധപ്പെടുത്തുന്നു അതാണ് മുമ്പത്തെ യൂണിറ്റിൽ ഞങ്ങൾ വിശദീകരിച്ചത് എല്ലാവർക്കും പരിചിതമായ വിഷയങ്ങളുടെ പട്ടികയാണ് കോഴ്സിന്റെ ഉള്ളടക്കം പഠന വിഭവങ്ങൾ പാഠപുസ്തകങ്ങൾ റഫറൻസുകൾ വ്യാഖ്യാനിച്ച ഇന്റർനെറ്റ് ലിങ്കുകൾ എന്നിവ പഠന വിഭവങ്ങളാണ് ചില അക്കാദമിക് മാനേജുമെന്റ് സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പുസ്തകങ്ങളിൽ നിന്നും ഇൻറർനെറ്റിൽ നിന്നുമുള്ള ചില ക്യൂറേറ്റഡ് സാമഗ്രികൾ അധ്യാപകന് തയ്യാറാക്കി ലഭ്യമാക്കാം ഡിസൈൻ ഘട്ടത്തിൽ തീരുമാനിച്ച വിലയിരുത്തൽ രീതി പരാമർശിക്കേണ്ടതാണ് CIE യ്ക്ക് എത്ര ശതമാനം അതിന്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ് അതിന് എത്രത്തോളം വെയിറ്റേജ് നൽകുന്നു SEE ന് എത്ര ശതമാനം സ്ഥാപനത്തിൽ നിന്നോ സർവകലാശാലയിൽ നിന്നോ നിങ്ങൾക്ക് എന്ത് നിയന്ത്രണങ്ങളുണ്ട് എന്നതിനെക്കുറിച്ചും വിലയിരുത്തൽ ക്രമം സംസാരിക്കും രൂപകൽപ്പന ഘട്ടത്തിൽ ചെയ്തതെല്ലാം ഇവിടെ എഴുതിവയ്ക്കേണ്ടതുണ്ട് ഹാജർ നയം കോളേജ് യൂണിവേഴ്സിറ്റി മാനദണ്ഡങ്ങളും ഇൻസ്ട്രക്ടറുടെ നിബന്ധനകളും അനുസരിച്ച് മിനിമം ഹാജർ ആവശ്യമാണ് ഒരു സ്വയംഭരണ കോളേജിൽ ഒരു ഇൻസ്ട്രക്ടർക്ക് അധികമായി നിബന്ധനകൾ നൽകാൻ കഴിയും പക്ഷേ ഒരു അഫിലിയേറ്റഡ് കോളേജിൽ മാനദണ്ഡങ്ങൾ തീരുമാനിക്കുന്നത് സർവ്വകലാശാലയാണ് കുറഞ്ഞത് 75 അല്ലെങ്കിൽ 80 ശതമാനം ഹാജർ മുതലായവ അതിൽ കുറവാണെങ്കിൽ ആവശ്യമായ നടപടികൾ എന്തൊക്കെയാണ് എന്ന് ഹാജർ നയത്തിന്റെ ഭാഗമാണ് പിന്തുടരുന്നത് നിർദ്ദേശ ഷെഡ്യൂൾ നിർദ്ദിഷ്ട തീയതി നൽകുന്ന ക്ലാസ് റൂം ലബോറട്ടറി ഷെഡ്യൂളുകൾ കോഴ്സ് വാഗ്ദാനം ചെയ്യുമ്പോഴെല്ലാം തീയതികൾ മാറും അതിനാൽ തീയതികൾ നിർദ്ദേശങ്ങളുടെ ഷെഡ്യൂൾ ഉള്ള പ്രഭാഷണ പദ്ധതി ഉൾപ്പെടുത്തേണ്ടതുണ്ട് അസൈൻമെന്റുകൾ 2 അസൈൻമെന്റുകൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടെങ്കിൽ അധ്യാപകർ ഈ അസൈൻമെന്റുകൾ മുൻകൂട്ടി തയ്യാറാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഏത് സമയത്താണ് അവ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കുന്നത് ഏത് സമയത്താണ് വിദ്യാർത്ഥികൾ സമർപ്പിക്കേണ്ടത് അസൈൻമെന്റിന്റെ സ്വഭാവം അത് ഗ്രൂപ്പായാലും വ്യക്തിഗത അസൈൻമെന്റുകളായാലും ഇത് 2 അല്ലെങ്കിൽ 3 അസൈൻമെന്റുകളാണെങ്കിലും എല്ലാ വിശദാംശങ്ങളും തീയതികൾ ഉൾപ്പെടെ ഒരുമിച്ച് ചേർക്കേണ്ടതുണ്ട് ടെസ്റ്റുകൾക്കും അസൈൻമെന്റുകൾക്കുമായുള്ള മൂല്യനിർണ്ണയ നടപടിക്രമങ്ങൾ ഏതെങ്കിലും റുബ്രിക്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വിലയിരുത്തലിന്റെ അല്ലെങ്കിൽ ടെസ്റ്റുകളുടെയും അസൈൻമെന്റുകളുടെയും എല്ലാ ഘടനയും വളരെ വ്യക്തമായി പരാമർശിക്കേണ്ടതാണ് ഉദാഹരണത്തിന് ഒരു അസൈൻമെന്റിന് 2 പ്രശ്നങ്ങൾ മാത്രമേ പരിഹരിക്കാൻ ഉണ്ടാകൂ പക്ഷേ അസൈൻമെൻറുകൾക്ക് കൂടുതൽ ചോദ്യങ്ങൾ ഭാഗികമായി മനസിലാക്കുന്നതിൽ നിന്നും ഭാഗികമായി പ്രയോഗിക വിഭാഗത്തിൽ നിന്നും ഉണ്ടാകാം അതിനാൽ വിദ്യാർത്ഥി ഒരു റിപ്പോർട്ട് എഴുതണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ മാർക്കൂകൾ അനുവദിക്കുന്നതിന് പിന്തുടരുന്ന റുബ്രിക്സ് നിങ്ങളുടെ മൂല്യനിർണ്ണയ നടപടിയുടെ ഭാഗമായിരിക്കണം വൈകി അസൈൻമെന്റ് സമർപ്പിക്കൽ നയം അസൈൻമെന്റ് സമർപ്പിക്കുന്നതിനായി ഒരു പഠനമാനേജുമെന്റ് സംവിധാനമുണ്ടെങ്കിൽ നിശ്ചിത സമയത്തിന് ശേഷം വിദ്യാർത്ഥി സമർപ്പിക്കുന്ന എന്തും അത് നിരസിക്കും വൈകിയ അസൈൻമെന്റ് സമർപ്പിക്കൽ നയം മുൻകൂട്ടി എഴുതി ആശയവിനിമയം നടത്തണം ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പരിഹാരപരീക്ഷയോ വർക്ക് പോളിസിയോ ഉണ്ടായിരിക്കും അസൈൻമെന്റുകളിൽ റിപ്പോർട്ടുകൾ ഉൾപ്പെടുന്നുവെങ്കിൽ അവലംബിക്കേണ്ട റഫറൻസുകൾ നൽകുന്നതിനുള്ള അവലംബ ശൈലി അറിയിക്കണം അവലംബം എങ്ങനെ നൽകണമെന്ന് കാണിക്കുന്നതിന് സാമ്പിളുകൾ നൽകാം പെരുമാറ്റ പ്രതീക്ഷകൾ ക്ലാസ്സിലേക്ക് വരുന്ന സമയം സെൽ ഫോണുകളുടെ ഉപയോഗം മൊബൈൽ ഇന്റർനെറ്റ് ഉപകരണങ്ങൾ ലാപ്ടോപ്പ് എന്നിവയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ പെരുമാറ്റത്തെക്കുറിച്ചുള്ള ഇൻസ്ട്രക്ടർമാരുടെ പ്രതീക്ഷകൾ അക്കാദമിക് സത്യസന്ധതയില്ലായ്മ വഞ്ചന അല്ലെങ്കിൽ രചനാമോഷണം എന്നിവയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പൊതുവെ കോളേജ് അല്ലെങ്കിൽ സർവ്വകലാശാല തന്നെ തയ്യാറാക്കുന്നു ആ വിവരങ്ങളും ഇവിടെ കൂട്ടിച്ചേർക്കണം വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അധ്യാപകനെ എപ്പോൾ സന്ദർശിക്കാമെന്ന് കണ്ടെത്താൻ ആഗ്രഹിക്കുന്നു ഇൻസ്ട്രക്ടർ ഒരാഴ്ചയിൽ അത്തരത്തിലുള്ള ഒരു മണിക്കൂർ അയാൾ ലഭ്യമാണ് എന്ന് പറഞ്ഞാൽ ആർക്കും ആ കോഴ്സിനെക്കുറിച്ച് മാത്രം അദ്ദേഹത്തെ കാണാൻ കഴിയും അധ്യാപന സഹായികളെ എങ്ങനെ ബന്ധപ്പെടണം എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളും ലഭ്യമാക്കണം ഈ ദിവസങ്ങളിൽ കോളേജുകളെയും സ്ഥാപനങ്ങളെയും വ്യത്യസ്ത കഴിവുള്ള വിദ്യാർത്ഥികളെ ചേർക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു ദിവ്യാങ്സ് എന്ന് വിളിക്കുന്നു ദിവ്യാങ് വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ലഭ്യമായ പ്രത്യേക പിന്തുണാ സംവിധാനവും വ്യക്തമായി പരാമർശിക്കേണ്ടതാണ് എൻഎഎസിയും എൻബിഎയും കോളേജുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ദിവ്യാങ്സിനുള്ള ക്രമീകരണങ്ങളെക്കുറിച്ച് വ്യക്തമായി വിവരങ്ങൾ തേടുന്നു സിലബസിന്റെ ഘടകങ്ങളിൽ ഏകദേശം 17 മുതൽ 18 വരെ ഇനങ്ങൾ ഉണ്ടെന്ന് കാണുന്നതുപോലെ ഈ ഇനങ്ങളിൽ ഏതെങ്കിലും നിങ്ങളുടെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കോഴ്സിന് പ്രസക്തമല്ലെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ അവ ഇല്ലാതാക്കാം ഈ ദിവസങ്ങളിൽ എല്ലാവർക്കും ഇൻറർനെറ്റ് ഉപകരണങ്ങളിൽ ലഭൃതയുള്ളതിനാൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ച് ക്ലാസിന്റെ ആദ്യ ദിവസം തന്നെ വാട്ട്സ്ആപ്പിൽ വിദ്യാർത്ഥികളുമായി പങ്കിടാൻ കഴിയും അല്ലെങ്കിൽ കോഴ്സ് ആരംഭിക്കുന്നതിന് മുമ്പ് ഇത് നിങ്ങളുടെ കോഴ്സിനായി രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികളുമായി പങ്കിടാം വിദ്യാർത്ഥികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് വളരെ വ്യക്തമാണ് അതിനാൽ തെറ്റിദ്ധാരണകളും പരിണതഫലങ്ങളും ഉണ്ടാകില്ല സാങ്കേതികവിദ്യ വ്യത്യസ്തമായതിനാൽ നിങ്ങൾ വിഭവങ്ങൾക്കായി ആസൂത്രണം ചെയ്യേണ്ടതുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടാകാം പക്ഷേ അത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ലഭ്യമായേക്കാം അല്ലെങ്കിൽ ലഭ്യമായേക്കില്ല അതിനാൽ വിഭവങ്ങളുമായി ബന്ധപ്പെട്ട് സെമസ്റ്റർ ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ കുറച്ച് മുൻകൂട്ടി നടപടിയെടുക്കണം ഉദാഹരണത്തിന് തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികളുടെ എണ്ണവും ഡെലിവറി സാങ്കേതികവിദ്യയും അനുസരിച്ച് കോഴ്സ് നടത്തുന്നതിന് ആവശ്യമായ വിഭവങ്ങൾ ആസൂത്രണം ചെയ്യണം അതാണ് ആസൂത്രണത്തിന്റെ ലക്ഷ്യം ഗ്രൂപ്പ് ചർച്ചകൾ ഒരു പ്രധാന ക്ലാസ് റൂം പ്രവർത്തനമാണെങ്കിൽ ഫർണിച്ചർ അത്തരമൊരു പ്രവർത്തനം അനുവദിക്കണം നിങ്ങൾക്ക് വളയ്ക്കാനാവാത്ത ബെഞ്ചുകളും കസേരകളും ഉണ്ടായിരിക്കാനും ഗ്രൂപ്പ് ചർച്ചകൾ പ്രതീക്ഷിക്കാനും കഴിയില്ല ഇത് ഇപ്പോൾ വളരെയധികം പ്രാധാന്യമർഹിക്കുന്നില്ലെങ്കിലും ഇത് വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ക്ലാസ് മുറിയിലെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ടാബ്ലെറ്റുകളിൽ വിദ്യാർത്ഥികൾ പ്രവർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെങ്കിൽ ഫർണിച്ചർ വൈദ്യുതി വിതരണ കണക്ഷനുകൾ വൈഫൈ മോഡം എന്നിവ ലഭ്യമാക്കണം ഒരു എൽസിഡി പ്രൊജക്ടർ ഉപയോഗിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ പ്രൊജക്ടറിലേക്കുള്ള ഇൻപുട്ട് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നിർദ്ദേശിക്കേണ്ടതുണ്ട് ടീച്ചർ തന്റെ ലാപ്ടോപ്പ് കൊണ്ടുവരേണ്ടതുണ്ടോ ഉദാഹരണത്തിന് എനിക്ക് മറ്റൊരാളിൽ നിന്ന് ക്ഷണിക്കപ്പെട്ട ഒരു പ്രഭാഷണം ഉണ്ടായിരിക്കാം അയാൾ ഒരു പെൻ ഡ്രൈവ് മാത്രമേ കൊണ്ടുവരൂ ആർക്കെങ്കിലും പെൻ ഡ്രൈവ് മാത്രം ഉപയോഗിച്ച് ഒരു പ്രഭാഷണം നടത്താൻ കഴിയുമോ നിങ്ങൾ ഒരു പഠന മാനേജുമെന്റ് സിസ്റ്റം ഉപയോഗിച്ച് കോഴ്സ് നടത്തുകയാണെങ്കിൽ എൽഎംഎസിലേക്ക് ആവശ്യമായ കണക്റ്റിവിറ്റി ചെയ്യേണ്ടതുണ്ട് നിങ്ങൾ MOODLE ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥി ഒരു ചെറിയ ക്വിസിന് ഉത്തരം നൽകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ LMS ഉപയോഗിച്ച് ക്വിസ് സൃഷ്ടിക്കാൻ കഴിയും ക്ലാസ്സിൽ നിങ്ങൾക്ക് Wi Fi കണക്റ്റിവിറ്റി ഇല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ പ്രതികരണങ്ങൾ ശേഖരിക്കാനാവില്ല ഫ്ലിപ്പ്ചാർട്ടുകൾ വലിയ മാപ്പുകൾ കാണിക്കുക കരകൌശല വസ്തുക്കൾ കാണിക്കുക ഒരു ഉപകരണം പ്രദർശിപ്പിക്കുക അല്ലെങ്കിൽ ഒരു പരീക്ഷണം നടത്തുക തുടങ്ങിയ കാര്യങ്ങൾ ഉപയോഗിക്കാൻ ചില ഇൻസ്ട്രക്ടർമാർ ആഗ്രഹിച്ചേക്കാം ഈ ക്രമീകരണങ്ങളിൽ പലതിലും ദീർഘകാല ആസൂത്രണം ആവശ്യമാണ് മാത്രമല്ല ഇതെല്ലാം ഒന്നാം ക്ലാസിൽ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ ഒരാൾക്ക് കഴിയില്ല ഉദാഹരണത്തിന് കാർനെഗീ മെലോൺ സർവകലാശാലയിലെ പ്രൊഫസർ ആൻഡി പോഷ് ഒരു കാര്യം തെളിയിക്കുന്നു നിങ്ങൾ പരിഗണിക്കുന്ന ഏത് ഉദ്ദേശ്യത്തിനും ഉൽപ്പന്നരൂപകൽപ്പനയെക്കുറിച്ച് സംസാരിക്കാൻ അദ്ദേഹം ക്ലാസ്സിൽ ഒരു വിചിത്രമായ കാര്യം ചെയ്യാറുണ്ടായിരുന്നു അദ്ദേഹം ഒരു പ്രവർത്തനയോഗൃമായ സിഡി പ്ലെയർ കൊണ്ടുവന്ന് ഒരു വലിയ സ്ലെഡ്ജ്ഹാമർ കൊണ്ടു ആദ്യം അത് തകർക്കും തീർച്ചയായും നിങ്ങളിൽ നിന്ന് ആരും എന്തെങ്കിലും കൊണ്ടുവന്ന് ക്ലാസ്സിൽ തകർക്കണമെന്ന് ഞങ്ങൾ ശുപാർശ ചെയ്യാൻ പോകുന്നില്ല പക്ഷേ ത൯്റെതായി കാര്യങ്ങൾ ചെയ്യാനുള്ള വഴിയുണ്ട് അതിനാൽ ഒരു അധ്യാപകൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്തും മുൻകൂട്ടി ആസൂത്രണം ചെയ്യേണ്ടതുണ്ട് അധ്യാപകന് വിദ്യാർത്ഥികളെപ്പറ്റിയും കാഴ്ചപ്പാട് ഉണ്ടായിരിക്കണം എങ്ങനെയുള്ള വിദ്യാർത്ഥികൾ എന്റെ അടുത്തേക്ക് വരുന്നു നിങ്ങൾക്ക് ഇത് സ്റ്റീരിയോടൈപ്പ് ആക്കാനും ഏതെങ്കിലും വിധത്തിൽ കുറച്ച് വിദ്യാർത്ഥികളെ ഒഴികെ എല്ലാ വിദ്യാർത്ഥികളും മോശമാണെന്ന് പറയാനും കഴിയില്ല അത്തരം സ്റ്റീരിയോടൈപ്പ് ചിത്രത്തിനൊപ്പം നിൽക്കുന്നത് നല്ല ആശയമല്ല ഇന്ത്യയിൽ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം എങ്ങനെയെങ്കിലും "ആർക്കും ചെയ്യാൻ കഴിയും" എന്ന് കണക്കാക്കപ്പെട്ടു ഇത് അർത്ഥവത്തായ എന്തെങ്കിലും തൊഴിൽ നേടാനുള്ള ഒരു മാർഗമാണ് 90 കളുടെ തുടക്കത്തിൽ വളരെയധികം സാമൂഹിക സമ്മർദ്ദമുണ്ടായിരുന്നു മാതാപിതാക്കൾ അവരുടെ കുട്ടികൾ എഞ്ചിനീയറിംഗ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങളുടെ അഭൂതപൂർവമായ വളർച്ചയുണ്ടായി ഇത് സ്വകാര്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾ സീറ്റുകൾ നിറക്കണം ഒരിക്കൽ നിങ്ങൾ സീറ്റുകൾ നിറച്ചാൽ വിദ്യാർത്ഥികളുടെ പ്രവേശനയോഗ്യത കുറയ്ക്കുന്നതിന് രാഷ്ട്രീയവും മറ്റ് സാമൂഹികവുമായ സമ്മർദ്ദം വീണ്ടും ഉണ്ടാകുന്നു കടന്നുപോകുന്ന ആരും നമുക്ക് പറയാം 40 ശതമാനം മാർക്ക് ഉള്ള ആരും എഞ്ചിനീയറിംഗിൽ ചേരാൻ യോഗ്യമാണ് സിഇടി കർണാടക കോമൺ എൻട്രൻസ് ടെസ്റ്റ് പോലും നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 50000 റാങ്ക് നേടാം പക്ഷേ നിങ്ങൾക്ക് ഒരു റാങ്ക് ആവശ്യമാണ് ഒരു 50000 റാങ്ക് നേടിയ വ്യക്തിക്കും എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിൽ ചേരാം നിങ്ങൾക്ക് അത്തരമൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതായത് നിങ്ങൾക്ക് ഇക്വിറ്റി വേണം ഇക്വിറ്റി എന്നാൽ അവരുടെ വൈജ്ഞാനിക കഴിവുകൾ പരിഗണിക്കാതെ തന്നെ എല്ലാ സാമൂഹിക തലങ്ങളിലുള്ളവർക്കും എല്ലാ സാമ്പത്തിക തലങ്ങൾക്കും എഞ്ചിനീയറിംഗ് പഠിക്കാനുള്ള അവസരമുണ്ടായിരിക്കണം കൂടാതെ വിദ്യാർത്ഥികൾക്ക് ലഭൃത ഉണ്ടായിരിക്കണം ഫീസ് അല്ലെങ്കിൽ വീട്ടിൽ നിന്നുള്ള ദൂരം എന്നിവ കണക്കിലെടുക്കുമ്പോൾ അതിൽ പ്രവേശിക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കരുത് എഞ്ചിനീയറിംഗ് സ്ഥാപനത്തിന്റെ വളരെയധികം വളർച്ചയ്ക്ക് ഇവ രണ്ടും കാരണമായി ക്ലാസ് റൂമിൽ നിങ്ങൾ അംഗീകരിക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് വൈവിധ്യമാർന്ന കഴിവുകളുള്ള വിദ്യാർത്ഥികളുണ്ട് ആ സ്ഥാപനങ്ങളിലെ അധ്യാപകർക്ക് അതിനെക്കുറിച്ച് പരാതിപ്പെടാൻ പോലും കഴിയാത്തതുപോലെ ഞങ്ങൾക്ക് നിലനിൽക്കാൻ ഒരു കാരണവുമില്ല കോളേജ് നിങ്ങൾക്ക് തൊഴിൽ നൽകുന്നു നിങ്ങൾ ഒരു അധ്യാപകനാണ് വിദ്യാർത്ഥികൾ നിങ്ങളോടൊപ്പമുണ്ട് അതിനാൽ നിങ്ങൾ വിദ്യാർത്ഥികളുമായും നിങ്ങളുടെ പാഠ്യപദ്ധതിയിലും മികച്ച ജോലി ചെയ്യേണ്ടതുണ്ട് നിങ്ങളുടെ ക്ലാസ്സിനും ക്ലാസ്സിന്റെ തരത്തിലുള്ള ഘടനയ്ക്കും അനുയോജ്യമായ രീതിയിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ക്രമീകരിക്കേണ്ടതുണ്ട് ഒരു ക്ലാസിന്റെ കഴിവും പ്രചോദനചെറുവിവരണവും അധ്യാപനത്തിലും പഠനത്തിലും വലിയ സ്വാധീനം ചെലുത്തും ഒരു കോഴ്സിനായി ഒന്നിലധികം വിഭാഗങ്ങളുണ്ടെങ്കിൽ വിദ്യാർത്ഥികളുടെ ഈ ചെറുവിവരണം പ്രൊഫൈൽ വർഷം തോറും അല്ലെങ്കിൽ ഓരോ വിഭാഗത്തിലും വ്യത്യാസപ്പെടാം വിദ്യാർത്ഥികളുടെ ഒരു ഏകദേശ ചെറുവിവരണമാണ് ഞങ്ങൾ നിർദ്ദേശിക്കുന്നത് മനശാസ്ത്രജ്ഞനെ സമീപിച്ചശേഷം ഇത് സൃഷ്ടിക്കാൻ കഴിയും വിദ്യാർത്ഥി എവിടെ നിന്നാണ് വന്നത് അയാൾക്ക് മുമ്പ് എങ്ങനെയുള്ള പ്രകടനം ഉണ്ടായിരുന്നു എന്നതിനെക്കുറിച്ചുള്ള ഡാറ്റയെ അടിസ്ഥാനമാക്കി വൈജ്ഞാനിക കഴിവുകളും പ്രചോദനവും പോലുള്ള ഒരു പ്രൊഫൈൽ നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിയും ഉദാഹരണത്തിന് നിങ്ങളിൽ അനേകം അധ്യാപകർ ഈ പ്രചോദന പ്രശ്നം അനുഭവിക്കുമായിരുന്നു കാരണം തികച്ചും പൂജ്യം എഞ്ചിനീയറിംഗ് പ്രചോദനം ഉള്ള വിദ്യാർത്ഥികളെ എഞ്ചിനീയറിംഗ് ചെയ്യാൻ മാതാപിതാക്കൾ പ്രേരിപ്പിക്കുന്നു ആ വിദ്യാർത്ഥികൾ ചിലപ്പോൾ എതിർക്കുകയും പ്രകടനം നടത്താൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നില്ല ചിലപ്പോൾ അവർ സ്വയം പ്രധാന സ്ട്രീമിലേക്ക് കൊണ്ടുവരാൻ കഠിനമായി പ്രയാസപ്പെടുന്നു ഞാൻ ചില 5 ലെവലുകളായി വിദ്യാർത്ഥികളുടെ എണ്ണത്തെ വിഭജിക്കുന്നു എനിക്ക് 60 വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവരുടെ കഴിവുകളെയും പ്രചോദനത്തെയും അടിസ്ഥാനമാക്കി അവ എങ്ങനെ വിഭജനം ചെയ്യുന്നു എനിക്ക് അത് നേടാൻ കഴിയുമെങ്കിൽ എന്റെ നിർദ്ദേശം ആസൂത്രണം ചെയ്യുന്നതിന് ഇത് എന്നെ സഹായിക്കുന്ന ഒരു പശ്ചാത്തലമാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് ഒരു ഫോർമുല സൃഷ്ടിക്കാൻ കഴിയുമെന്നല്ല വിദ്യാർത്ഥികളെക്കുറിച്ചുള്ള തന്റെ ധാരണയെ അടിസ്ഥാനമാക്കി ഏത് തലത്തിലാണ് തന്റെ നിർദ്ദേശം ആസൂത്രണം ചെയ്യുകയും കോഴ്സ് നടത്തുകയും ചെയ്യുന്നതെന്ന് ഒരു അധ്യാപകന് പറയേണ്ടി വരും നിങ്ങളുടെ കോഴ്സിന്റെ സിലബസ് നിങ്ങൾ പ്രവർത്തിക്കുന്ന ചട്ടക്കൂടിനുള്ളിൽ നിങ്ങൾ പഠിപ്പിച്ച പരിചിതമായ ഒരു കോഴ്സിന് എഴുതാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങൾ സംസാരിച്ച 17 18 ഇനങ്ങൾ നോക്കുക എന്നതാണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് മിക്ക കാര്യങ്ങളും മുമ്പത്തെ ഘട്ടങ്ങളിൽ തന്നെ ചെയ്തു കഴിഞ്ഞു ആ ഇനങ്ങൾ ഈ ക്രമത്തിൽ ക്രമീകരിക്കുക നിങ്ങൾക്ക് ഞങ്ങളുമായി പങ്കിടാൻ കഴിയുമെങ്കിൽ ഞങ്ങൾ വിലമതിക്കും നടപ്പാക്കൽ ഘട്ടം 2 ആയ അടുത്ത യൂണിറ്റിൽ നടപ്പാക്കൽ ഘട്ടത്തിന്റെ ശേഷിക്കുന്ന പ്രക്രിയ ഞങ്ങൾ പരിശോധിക്കും നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് നന്ദി